തിരികെ സ്വാഗതം നമ്മൾ ഇപ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ തുടരും ഡബിൾ ഇന്റഗ്രലുകളുടെയും ഡബിൾ ഇന്റഗ്രലിന്റെ മറ്റ് നിരവധി ആപ്ലിക്കേഷനുകളുടെയും വിലയിരുത്തൽ നമ്മൾ ഇതിനകം പൂർത്തിയാക്കി ഇന്ന് നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രലുകളെക്കുറിച്ച് പഠിക്കും അടിസ്ഥാനപരമായി ഈ ലെക്ച്ചറിൽ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽൻറെ മൂല്യനിർണ്ണയ ഭാഗം ആയിരിക്കും പരിശോധിക്കുന്നത് അതിനാൽ ആദ്യം ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ എങ്ങനെ നിർവചിക്കാം തന്നിരിക്കുന്ന റീജിയനെ വിഭജിക്കുന്ന ഡബിൾ ഇന്റഗ്രലുകൾക്കായി നമ്മൾ ചെയ്തതിന് സമാനമായിരിക്കണം ഇപ്പോൾ നമ്മുടെ റീജിയൻ 3D സ്പേസിലെ ഒരു 3 ഡയമെൻഷനിലുള്ളതായിരിക്കും അതിനാൽ നമ്മൾ ആ റീജിയനെ n ഉപ മേഖലകളായി വിഭജിക്കും കൂടാതെ ഈ ഉപമേഖലകളുടെ വോള്യത്തെ ഈ എന്ന് വിളിക്കുന്നു അതിനാൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു 3 ഡയമെന്ഷനൽ സ്പേസ് ഉണ്ട് നമ്മൾ അതിനെ ചെറിയ റീജിയൻകളായി വിഭജിച്ചു ഓരോ റീജിയനും ഈ വോളിയം ഈ കൊണ്ട് സൂചിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ 'th റീജിയനിൽ എന്ന ഒരു അർബിട്രറി പോയിന്റ് എടുക്കുന്നു അതിനാൽ 2 ഡയമെൻഷൻറെ കാര്യത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുമായി ഇത് വളരെ സാമ്യമുള്ളതാണ് നമ്മൾ 2D ഡൊമെയ്നെ ചെറിയ വിഭാഗങ്ങളായി വിഭജിച്ചു ചെറിയ സെല്ലുകൾ ഓരോ സെല്ലിലും നമ്മൾ ഒരു പോയിന്റ് എടുക്കുകയും ആ ഘട്ടത്തിലെ ഫംഗ്ഷന്റെ അനുബന്ധ മൂല്യം ഏരിയ കൊണ്ട് ഗുണിക്കുകയും അവ കൂട്ടിച്ചേർക്കുകയും ആ തുകയുടെ ലിമിറ്റ് എടുക്കുകയും ചെയ്താൽ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ അവതരിപ്പിക്കുന്നു അതിനാൽ ഇവിടെയും ഈ തുക നമ്മൾ ഇപ്പോൾ പരിഗണിക്കും അതിനാൽ ഇവിടെ ഫംഗ്ഷൻ മൂല്യത്താൽ ഗുണിച്ച ശേഷം ഇവയെല്ലാം കൂട്ടിച്ചേർക്കുന്നു അതിനാൽ നമ്മൾ j th ഉപ ഉപമേഖലയിൽ പരിഗണിച്ച എന്ന പോയിൻറ്ലെ ഫംഗ്ഷൻ മൂല്യം അനുബന്ധ വോളിയം യുമായി ഗുണിച്ച് അവയെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കുന്നു അതായത് ഈ j എന്നത് 0 മുതൽ n വരെ വ്യത്യാസപ്പെടുന്നു ഇപ്പോൾ ഇവിടെ n→∞ എന്ന ലിമിറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സബ് റീജിയനുകളുടെ വോളിയം 0 ലേക്ക് പോകുന്ന ലിമിറ്റ് എടുക്കുന്നു അതായത് സബ് റീജിയനുകളുടെ എണ്ണം ∞ ലേക്ക് പോകും അതിനാൽ n→∞ എന്ന ലിമിറ്റ് എക്സിസ്റ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ എന്നു വിളിക്കുന്നു ഈ 3D കേസിൽ ഈ ഇന്റഗ്രലിനുള്ള നൊട്ടേഷൻ എന്നു ഉപയോഗിക്കുന്നു അതിനാൽ 3D സ്പേസിലെ വോളിയത്തിന് മുകളിലുള്ള ഈ ഇന്റഗ്രലിനായി നമുക്ക് ഇപ്പോൾ മൂന്ന് ഇന്റഗ്രൽ ചിഹ്നങ്ങൾ ഉണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ സ്പേസിലെ എന്ന ഫംഗ്ഷൻ ഉണ്ട് അത് യുമായി ഗുണിച്ച് അവയെല്ലാം കൂട്ടിച്ചേർത്തു n→∞ എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവസാനം ട്രിപ്പിൾ ഇന്റഗ്രേലിന്റെ നിർവചനം ലഭിക്കുന്നു ഫിസിക്കൽ ഇന്റെർപ്രെറ്റേഷന് ആയി ഉദാഹരണത്തിന് f 1 എന്ന് എടുത്ത് വളരെ വേഗത്തിൽ നമ്മൾ പരിശോധിക്കുന്നു അതിനർത്ഥം ഇവിടെ എഫ് ഇല്ല അതിനാൽ നമ്മൾ അടിസ്ഥാനപരമായി ഓരോ സബ് റീജിയനുകളുടെയും വോളിയം ചേർത്ത് ലിമിറ്റ് എടുക്കുന്നു അതിനാൽ ഈ f1 ആയി പരിഗണിക്കുന്നതിലൂടെ നമുക്ക് ആ സബ് റീജിയൻറെ വോളിയം അല്ലാതെ ഒന്നും ലഭിക്കില്ല ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഡബിൾ ഇന്റഗ്രലിന്റെ ആപ്ലിക്കേഷനുകളിലൊന്നായ വോളിയം നമ്മൾ കണക്കുകൂട്ടി പക്ഷേ ആ കേസിൽ ഇന്റഗ്രന്റിനകത്ത് f നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അതിനാൽ ആ സർഫസ്സുമായി ഡബിൾ ഇന്റഗ്രൽ ഇന്റഗ്രേറ് ചെയ്യുകയും നമ്മൾക്ക് വോളിയം നൽകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ f1 ആയി സജ്ജമാക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഡൊമെയ്നിന്റെ വോളിയം ലഭിക്കുന്നു ഈ കേസിൽ V സൂചിപ്പിക്കുന്നത് ഇന്റഗ്രേഷന്റെ ഡൊമെയ്ൻനെയാണ് കൂടാതെ ഡബിൾ ഇന്റഗ്രലിന്റെ കാര്യത്തിൽ രണ്ടാമത്തേതിൽ ഡൊമെയ്നിന്റെ ഏരിയ കണ്ടെത്തുന്ന ആപ്ലിക്കേഷനും നമ്മളുടെ പക്കലുണ്ടായിരുന്നു കൂടാതെ കൃത്യമായി നമ്മൾ ഈ ഫംഗ്ഷൻ f 1 ആയി സജ്ജമാക്കി കൂടാതെ ഈ ഫംഗ്ഷൻ ഇല്ലാതെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഇന്റഗ്രേഷന്റെ ഡൊമെയ്നിന്റെ ഏരിയ ലഭിക്കുന്നു അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ f 1 എന്ന് സജ്ജമാക്കുമ്പോൾ ഡൊമെയ്നിന്റെ വോളിയം ലഭിക്കും കാരണം ഇപ്പോൾ നമുക്ക് ഈ 3 ഡയമെന്ഷനൽ സ്പേസിലെ ഒരു വോളിയം ഉണ്ട്

അതിനാൽ f 1 ന് തുല്യമാണെന്ന് പറഞ്ഞാൽ അത് വോളിയത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ആപ്ലിക്കേഷനുകളിലൊന്നായി ഇത് പരിഗണിക്കാം അതിനാൽ ട്രിപ്പിൾ ഇന്റഗ്രൽ എങ്ങനെ വിലയിരുത്താം ഡബിൾ ഇന്റഗ്രലിന്റെ വിലയിരുത്തലിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ഇതും എളുപ്പമായിരിക്കും സിംഗിൾ ഇന്റഗ്രലുകളുടെ കണക്കുകൂട്ടലിന്റെ ആവർത്തനമാണ് ഈ ആശയം ഉദാഹരണത്തിന് ഏറ്റവും സാധാരണമായ രൂപമാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ ഏറ്റവും ആന്തരികമായ ഇന്റഗ്രൽ x നോടനുബന്ധിച്ച് എടുത്ത ഒന്നാണ് അതിനാൽ വളരെ സാധാരണമായ ഈ x ന്റെ ലിമിറ്റ്കൾ ഈ y z എന്നിവയുടെ ഫംഗ്ഷൻ ആയിരിക്കും അതിനാൽ ഇന്നർ ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഫംഗ്ഷനുകൾ ലഭിക്കും കാരണം x അടിസ്ഥാനമാക്കി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു അതിനാൽ നമ്മൾ ഇനി x കാണില്ല പക്ഷേ ലിമിറ്റ്കൾ ഇവിടെ y z എന്നിവയുടെ ഫംഗ്ഷൻ ആകാം തുടർന്ന് നമുക്ക് ഇന്റഗ്രൻഡിൽ y ഉം z ഉം ഉണ്ടാകും അതിനാൽ പൊതുവേ ഇന്നർ ഇന്റഗ്രലിന്റെ വിലയിരുത്തലിനുശേഷം നമുക്ക് y z എന്നിവയുടെ ഫംഗ്ഷൻ ലഭിക്കും അതിനാൽ ഇന്നർ ഇന്റഗ്രലിന്റെ വിലയിരുത്തൽ നടത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ y യുമായി ബന്ധപ്പെട്ട് ഉള്ള ഇന്റഗ്രലിന്റെ വിലയിരുത്തലിനായി നമ്മൾ പോകും അതിനാൽ നമ്മൾ ഇപ്പോൾ y യുമായി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഒപ്പം y ന്റെ ലിമിറ്റുകൾ z ന്റെ ഫങ്ക്ഷനാകാം അതിനാൽ ഈ രണ്ടാമത്തെ ഇന്നർ ഇന്റഗ്രലിന്റെ ഇന്റഗ്രേഷനുശേഷം നമുക്ക് z ന്റെ ചില ഫംഗ്ഷൻ ലഭിക്കും ഇപ്പോൾ അവസാനം z യുമായി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ലിമിറ്റുകൾ കോൺസ്റ്റന്റുകൾ ആയിരിക്കണം കാരണം എല്ലായ്പ്പോഴും ഈ ഇന്റഗ്രലിന്റെ മൂല്യം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നത് ഓർക്കുക നിങ്ങൾ x y z എന്നിവയൊന്നും കാണില്ല കാരണം നമ്മൾ ഇന്റഗ്രേറ്റ് അത് V എന്ന വോളിയത്തിൽ അഥവാ വോള്യത്തിലെ xyz എന്ന എല്ലാ പോയിന്റുകളിലേക്കും ആണ് അതിനാൽ അവസാനം എന്ന ഇന്റഗ്രേലിന്റെ മൂല്യം xyz എന്നിവയിൽ നിന്നെല്ലാം ഒഴിവായിയിരിക്കും അതിനാൽ ആന്തരികമായുള്ള രണ്ട് ഇന്റഗ്രലിന്റെ വിലയിരുത്തൽ കഴിഞ്ഞാൽ നമുക്ക് z ന്റെ ഒരു ഫംഗ്ഷൻ പോലെ ലഭിക്കുന്ന ഇൻഗ്രലിനെ ഇപ്പോൾ z മായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും അതിനാൽ ഔട്ടർ ഇന്റഗ്രലിനായി ഇപ്പോൾ ലിമിറ്റുകൾ സ്ഥിരമായിരിക്കണം ഇത് ഒരു പൊതുവായ പരിഗണനയാണ് ഇന്റഗ്രലിന്റെ ലിമിറ്റുകൾ നൽകുമ്പോൾ നാം എല്ലായ്പ്പോഴും ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ x മായി നാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്നർ ഇൻഗ്രലിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും y z എന്നിവയുടെ ഫംഗ്ഷൻകാം ഈ ഇന്റഗ്രേഷന് ശേഷം x നീക്കം ചെയ്ത നമുക്ക് y z എന്നീ വേരിയബിളുകളുടെ ഫംഗ്ഷൻ ഉണ്ട് എന്നിട്ട് y യുമായി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ലിമിറ്റുകൾ പോലുള്ള z ന്റെ ഫംഗ്ഷനായിരിക്കാം ബാഹ്യഇൻഗ്രലിന്റെ ലിമിറ്റുകൾ കോൺസ്റ്റന്റുകളായിരിക്കണം ഇപ്പോൾ നമുക്ക് ഈ x y z എന്നിവയിൽ നിന്ന് മുക്തമായ ഈ ഇന്റഗ്രലിന്റെ മൂല്യം ലഭിക്കും അതിനാൽ ഈ ഘടന നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഇന്റഗ്രേഷന്റെ ലിമിറ്റുകൾ കോൺസ്റ്റന്റുകൾ ആണെങ്കിൽ ഡബിൾ ഇന്റഗ്രലിന് സമാനമായി ഇന്റഗ്രേഷന്റെ ഓർഡർ എങ്ങനെയും എടുക്കാം

അതിനാൽ ഇവിടെ നമുക്ക് e to f ഉണ്ട് ഇന്റഗ്രേഷന്റെ ലിമിറ്റുകൾ സ്ഥിരമാണെങ്കിൽ നമുക്ക് ഓർഡർ മാറ്റാൻ കഴിയും കൂടാതെ dxdz dxdy പോലുള്ള ക്രമങ്ങളും നമുക്ക് ഇനിയും മാറ്റാൻ കഴിയും ഒപ്പം ഇന്റഗ്രലുകളെ അപേക്ഷിച്ച് അനുബന്ധ ലിമിറ്റുകൾ എടുക്കണം വളരെ പൊതുവായ ഒരു കേസിൽ മുകളിൽ പറഞ്ഞതുപോലെ ഇവിടെ ഫംഗ്ഷനുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്റഗ്രേലിന്റെ ഓർഡർ കൂടുതൽ ബുദ്ധിമുട്ടാണ് രണ്ട് വേരിയബിളുകളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്തതിന് സമാനമായി ഓർഡർ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കൽ നമ്മൾ ഓർഡർ മാറ്റിയാൽ ഈ ലിമിറ്റുകൾ സ്ഥിരമല്ലെങ്കിൽ ഇന്റഗ്രേഷന്റെ ലിമിറ്റുകൾ കണ്ടെത്തുന്നതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലിമിറ്റുകൾ സ്ഥിരമാണെങ്കിൽ ഒരാൾക്ക് ക്രമം മാറ്റാനാകും ഇപ്പോൾ നമ്മൾ മൂല്യനിർണ്ണയത്തിനായി പോകും ആദ്യത്തെ ഉദാഹരണം എന്നത് വിലയിരുത്തുക എന്നതാണ് നമ്മൾ വളരെ ലളിതമായ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പരിഗണിക്കുന്നു ഒപ്പം നമ്മൾ എന്നിവ അടിസ്ഥാനമാക്കിയും തുടർന്ന് അടിസ്ഥാനമാക്കിയും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്

അതിനാൽ നമ്മൾ ആവർത്തിച്ച് ഇന്റഗ്രലുകൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നിട്ട് ഇവ സിംഗിൾ ഇന്റഗ്രലുകളായി മാറുന്നു ആദ്യം z നോടും പിന്നീട് y നോടും അവസാനം x നോടും കൂടി അടുത്തതായി നമുക്ക് വിലയിരുത്തുക എന്ന രണ്ടാമത്തെ പ്രോബ്ലം ഉണ്ട് ഇവിടെ R എന്ന റീജിയൻ എന്നിവയാൽ ബൌണ്ടഡ് ആയിട്ടുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് 3 ഡയമെന്ഷനാൽ സ്പേസിനെകുറിച്ച് ആണ്

അവസാനത്തെ പ്രോബ്ലം ട്രിപ്പിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് എന്ന ഗോളത്തിനും എന്ന സർക്കുലർ സിലിണ്ടറിനും പൊതുവായ വോളിയം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് വീണ്ടും നമ്മൾ മുമ്പ് രണ്ട് തവണ ചർച്ച ചെയ്ത സർക്കിളാണ് ഇവിടെ ഒരു ഷിഫ്റ്റഡ് സർക്കിളാണ് ഉള്ളത് റേഡിയസ് a2 ഉം സെൻറർ a2 0 ഉം ആയ ഒരു സർക്കിളാണിത് ഈ ചിത്രത്തിൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ സിലിണ്ടർ അതിൻറെ പ്രൊജക്ഷൻ xy പ്ലെയിനിൽ ഒരു സർക്കിൾ ആണ് അതിൻറെ റേഡിയസ് a2 സെൻറർ a2 0 എന്നിവ ആണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് നിങ്ങൾ വോളിയം കണ്ടെത്തണമെങ്കിൽ വ്യക്തമായും ഇപ്പോൾ ഒരു ഇന്റഗ്രണ്ടും ഉണ്ടാകില്ല കൂടാതെ നമുക്കുള്ളത് സിലിണ്ടറും തുടർന്ന് ഗോളവും നമുക്ക് നൽകുന്ന V അടിസ്ഥാനമാക്കിയുള്ള ഇന്റഗ്രൽ ആണ് സിലിണ്ടർ ഗോളത്തെ മുറിക്കുന്നു ആ ഭാഗത്തിൻറെ വോളിയം നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു വീണ്ടും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ V യ്ക്കുള്ള ഈ ലിമിറ്റുകൾ കണ്ടെത്തുക എന്നതാണ് കൂടാതെ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് z അടിസ്ഥാനമാക്കിയാണ്

അതിനാൽ z നെ സംബന്ധിച്ച് നമ്മൾ ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോളിയം xy പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും ഒരിക്കൽ xy പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ നമ്മൾ 2 ഡയമെന്ഷനിലായിരിക്കും കൂടാതെ 2 ഡയമെന്ഷനൽ കേസിന്റെ ലിമിറ്റുകൾ എങ്ങനെ നിർണ്ണയിക്കാമെന്ന് നമ്മൾക്കറിയാം ലെക്ച്ചറുകൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകളാണിത് വളരെയധികം നന്ദി